ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം

നാലാം ആഴ്ചയുടെ മധ്യത്തിൽ ഇത് 21 ാമത്തെ പ്രഭാഷണമാണ് ഈ ആഴ്ചയിൽ ഞാൻ നോക്കാൻ തുടങ്ങി കേൾക്കുന്നതിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് കേൾക്കുന്നത് വളരെ അടിസ്ഥാനപരവും സംയോജിതവുമാണ് പ്രത്യേകിച്ച് ആശയവിനിമയ വൈദഗ്ദ്ധ്യം പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തുടർന്ന് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ സജീവമായി പരിചയപ്പെടുത്തി ഇത് ഞാൻ കേൾക്കുന്നതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു തുടർന്ന് ഞാൻ ചെയ്യും കേൾക്കുമ്പോൾ ഈ ആശയം അവസാനിപ്പിക്കുക തുടർന്ന് നമ്മൾ മറ്റൊന്നിലേക്ക് നീങ്ങും കേൾക്കുന്നതിനും സംസാരിക്കുന്നതിനും ഉള്ള വശങ്ങൾ അവസാനം ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയും ഈ പ്രഭാഷണം ഇതിൽ സജീവമായ ശ്രവണത്തിനുള്ള തടസ്സങ്ങളിൽ ഞങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു പക്ഷേ അതിനുമുമ്പ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഹൈലൈറ്റുകൾ നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആശയവിനിമയത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന നിലയിൽ നല്ല ആശയവിനിമയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു നന്നായി കേൾക്കുന്നു വാസ്തവത്തിൽ നല്ല ആശയവിനിമയം നല്ല കേൾവിയും നല്ല ആശയവിനിമയവുമാണെന്ന് ഞാൻ പറഞ്ഞു ഊർജ്ജം ആവശ്യമുള്ളതും എങ്ങനെ എന്ന് അറിയാവുന്നതുമായ ഒരു സജീവ സംയോജിത ആശയവിനിമയ നൈപുണ്യമാണ് ശ്രവണം ഇത് ലക്ഷ്യബോധമുള്ളതും ശക്തവും ഉൽപ്പാദനക്ഷമവുമാണ് നിർവചിക്കുന്നതിനും നിർവചിക്കുന്നതിനുമായി സജീവമായ ശ്രവണം സജീവമായ ശ്രവണത്തെ വിവരിക്കുക ഇത് മുഴുവൻ ശരീരവും കേൾക്കുന്നതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പൂർണ്ണമായും ശ്രദ്ധാലുക്കളാണ് കണ്ണുകൾ പൂർണ്ണമായും ശ്രദ്ധാലുക്കളാണ് കണ്ണുകൾക്ക് നോൺ വെർബൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല സൂചനകളും അത് വാക്കാലുള്ളവയ്ക്കായി സജീവമായി തിരയുന്നു അവയിൽ നിന്നാണ് വരുന്നത് പ്രഭാഷകൻ കണ്ണും ചെവിയും ഒഴികെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ കൈകളും ചെവികളും പോലെ കാലുകൾ നിശ്ചലമായി നിൽക്കുന്നു അവർ പ്രഭാഷകനെ വ്യതിചലിപ്പിക്കുന്നില്ല അവർ ഒരു തെറ്റും ചെയ്യുന്നില്ല പ്രഭാഷകനെ ആകർഷിക്കുക ഹൃദയം തന്നെ വളരെ അനുകമ്പയുള്ളതും മുഴുവൻ കരുണയുള്ളതുമാണ് വ്യക്തി ചായ്വുള്ളവനും താൽപ്പര്യമുള്ളവനുമാണെന്ന് കാണിച്ച് ശരീരം സ്പീക്കറിലേക്ക് ചായുന്നു തുടർന്ന് ആ വ്യക്തി പ്രഭാഷകനോട് സഹാനുഭൂതി കാണിക്കാനും ശ്രമിക്കുന്നു അതുകൊണ്ടാണ് സജീവമാകുന്നത് കേൾക്കുന്നതിനെ മുഴുവൻ ശരീരവും കേൾക്കുന്നത് എന്ന് വിളിക്കുന്നു ഒരു സജീവ ശ്രോതാവാകാൻ നിങ്ങൾക്ക് ചില നുറുങ്ങുകൾ നൽകിയാണ് ഞാൻ പ്രഭാഷണം അവസാനിപ്പിച്ചത് ചിലത് എടുത്തുകാണിച്ച പ്രധാന നുറുങ്ങുകളിൽ മര്യാദയും പരിഗണനയും പുലർത്താൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്ന പ്രഭാഷകനോട് നിങ്ങൾ വളരെ മോശക്കാരനെപ്പോലെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട അതിഥി തടസ്സപ്പെടുത്തരുത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുക സ്വയം സംസാരം കുറയ്ക്കുക നിങ്ങളുടെ കേൾവി പരമാവധി വർദ്ധിപ്പിക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യതിചലിക്കരുത് പ്രോത്സാഹിപ്പിക്കുക ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാമെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാറ്റ് പോലും നൽകാം പക്ഷേ സൂക്ഷിക്കുക നിങ്ങളുടെ തലയാട്ടലിലൂടെയും മറ്റ് വാക്കേതര സൂചനകളിലൂടെയും ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുക ശ്രമങ്ങളെ അംഗീകരിക്കുക വ്യക്തി എന്തെങ്കിലും നേടിയിട്ടുണ്ട് ആ വ്യക്തിയെ സ്തുതിക്കുന്നു ആ വ്യക്തിക്ക് വരാൻ കഴിയുമെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ആ ശ്രമത്തെ അഭിനന്ദിക്കുന്നു ചുരുക്കത്തിൽ ഇതുവരെ ചർച്ച ചെയ്തതെല്ലാം നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക ചുരുക്കത്തിൽ വ്യക്തത തേടുക ഇല്ലെങ്കിൽ വ്യക്തത ചോദിക്കാൻ മടിക്കരുത് എന്തെങ്കിലും മനസിലാക്കുക ആശയവിനിമയ പ്രക്രിയയ്ക്കായി വ്യക്തത തേടാൻ മടിക്കേണ്ടതില്ല സ്വയം പൂർണ്ണവും ഫലപ്രദവുമാണ് വളരെ ശാന്തവും ആശ്വാസകരവുമായ മൌനം ഉപയോഗിക്കുക ഒരു പോസിറ്റീവ് വികാരത്തോടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് അവസാനം ഞാൻ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളെ വിട്ടുപോകുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ നല്ല വികാരത്തോടെ പോകണം ഒരാൾ വന്നു അവൻ അല്ലെങ്കിൽ അവൾ സംസാരിക്കാൻ യോഗ്യനാണെന്ന തിരിച്ചറിവുമായി പോകണം നിങ്ങൾ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രഭാഷണത്തിൽ നമുക്ക് സജീവതയുടെ പ്രാധാന്യം നോക്കിക്കൊണ്ട് ആരംഭിക്കാം നിങ്ങൾ ഒരു സജീവ ശ്രോതാവാകേണ്ടത് എന്തുകൊണ്ട് അതിനാൽ ഒരു ഉണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അറിവ് ശക്തിയാണെന്ന് അവർ പറയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് എങ്ങനെ ലഭിക്കും മിക്കവാറും നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെങ്കിൽ ഒരു സജീവ ശ്രോതാവായി മാറുന്നതിലൂടെ നിങ്ങളുടെ ശ്രവണ വൈദഗ്ദ്ധ്യം മെച്ചപ്പെടുത്തുക നിങ്ങൾ കേൾക്കുന്നതെന്തും നിങ്ങൾ കേൾക്കുന്നതെന്തും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പുനർനിർമ്മിക്കുന്നതെന്തും നിങ്ങൾക്കറിയാമെങ്കിൽ എല്ലാം വ്യക്തമായും ഇത് നിങ്ങൾക്കും മറ്റേ വ്യക്തിക്കും ധാരാളം സമയം ലാഭിക്കുന്നു നിങ്ങളുമായുള്ള ആശയവിനിമയ ഇടപാടിൽ ഏർപ്പെടുന്നു ഇത് നിരവധി കാര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു കേടുപാടുകൾ സംഭവിക്കുന്നു നിങ്ങൾ ഒരു കമ്പനിയിൽ ആണെങ്കിൽ അത് ചെലവേറിയ നിരവധി തെറ്റുകൾ ഒഴിവാക്കും മോശം ശ്രവണ വൈദഗ്ദ്ധ്യം കാരണം മാത്രം വരുന്നു സജീവമായ ശ്രവണമാണ് വിജയത്തിൻറെ താക്കോൽ വ്യക്തിപരവും തൊഴിൽപരവുമായ ബന്ധങ്ങളും ഓർക്കുക ഞാൻ ഇത് പറയുകയാണ് നിങ്ങളുടെ ബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് നിങ്ങളുടെ വിജയത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ സമ്പന്നമായ ബന്ധങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ ആളുകൾ വന്ന് ദാനം ചെയ്യും നിങ്ങൾക്ക് വിജയം സജീവമായ ശ്രവണം നിങ്ങളുടെ ജോലിയുടെ ഫലപ്രാപ്തിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു അതിനാൽ നന്നായി കേൾക്കുന്ന ഒരാൾ ഇവിടെയുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകും അവൻ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുന്നില്ല അതിനാൽ വിദേശ പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് എനിക്ക് അയയ്ക്കാൻ കഴിയുന്ന വ്യക്തി ഇതാണ് ഇത് ഒരു സന്ദേശം സ്വീകരിക്കാൻ എനിക്ക് ആത്മവിശ്വാസത്തോടെ അയയ്ക്കാൻ കഴിയുന്ന ഒരു സജീവ ശ്രോതാവാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട അതിഥി അതിനാൽ അവൻ ആ വ്യക്തിയെ സജീവമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്താണ് പ്രസക്തം അതിനാൽ ഇത് നിങ്ങളുടെ ജോലിയുടെ ഫലപ്രാപ്തിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ഇതും സഹായിക്കും ഏതെങ്കിലും ഇടപാടുകളിലും സംഘർഷങ്ങളിലും മൊത്തത്തിലുള്ള തെറ്റായ ആശയവിനിമയം ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും തൊഴിൽ സാഹചര്യങ്ങളിൽ വീണ്ടും ഇത് വ്യക്തിഗത തലത്തിൽ മനുഷ്യ ആശയവിനിമയ തലത്തിൽ പോലും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു മൊത്തത്തിൽ ഇത് നിങ്ങളുടെ അനുനയപരവും ചർച്ചാപരവുമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നു അതിനാൽ ബോധ്യപ്പെടുത്തുന്ന കഴിവുകൾ നിങ്ങൾ നന്നായി കേൾക്കുന്നു അതുവഴി നിങ്ങൾക്ക് ആ വ്യക്തിയെ മികച്ച രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനാൽ മറ്റൊരാളുമായി നന്നായി ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും സജീവമായി ജാപ്പനീസ് അമേരിക്കൻ ബിസിനസ്സ് ഇടപാടുകൾക്കിടയിൽ അവ വളരെ അധിക വാക്കുകളായതിനാൽ അവ കൂടുതൽ സംസാരിക്കാൻ പ്രവണത കാണിക്കുന്നു അതിനാൽ അവർ ജാപ്പനീസ് പിന്നെ ജാപ്പനീസ് ബിസിനസ്സ് വ്യവസായി അവൻ മറ്റേയാളെ ശ്രദ്ധിക്കുന്നു വളരെ ശ്രദ്ധാപൂർവ്വം പക്ഷേ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല അമേരിക്കക്കാരൻ സംസാരിക്കുകയും പിന്നീട് സംസാരിക്കുകയും ചെയ്യുന്നു അവൻ പറയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ അവൻ സംസാരിക്കുന്നു തനിക്ക് തോന്നുന്നതുപോലെ പൂർണ്ണമായും ക്ഷീണിതനും സംസാരിക്കാൻ മറ്റൊന്നും ഇല്ലെന്ന് അവൻ മനസ്സിലാക്കുന്നതുപോലെ ജാപ്പനീസ് സംസാരിക്കാൻ തുടങ്ങുന്ന സമയം അങ്ങനെയാണ് അവർ വിജയിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നില്ലേ ബിസിനസ്സ് ഇടപാടുകൾ അങ്ങനെയാണ് അവർ വളരെ സജീവമായ ശ്രോതാക്കളായിരിക്കുന്നതിലൂടെ അവർ നല്ല ചർച്ചക്കാരാണെന്ന് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു സജീവ ശ്രോതാവായി മാറുമെന്ന് തീരുമാനിച്ച ശേഷം നിങ്ങൾ അത് മനസ്സിലാക്കണം സജീവമായിരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്ന് ഞാൻ വിളിക്കുന്ന ചില തടസ്സങ്ങൾ ഉള്ളതിനാൽ ഇത് അത്ര എളുപ്പമല്ല കേൾക്കുന്നു ചില പ്രശ്നങ്ങളുണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങൾ പക്ഷേ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാം ഇപ്പോൾ മൊത്തത്തിൽ വരുന്ന ഒരു തവണ ചുറ്റുപാടുകളിൽ നിന്ന് പുറത്തുനിന്നുള്ള ശബ്ദം പോലുള്ള ഭൌതിക തടസ്സങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു നിങ്ങൾ ഒരു ഓഡിറ്റോറിയത്തിലാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ക്ലാസ് മുറിയിലാണെന്നോ പറയാം ടീച്ചർ പക്ഷേ പുറത്ത് ഒരു ഉച്ചഭാഷകത്തിൽ ഒരു ചടങ്ങ് നടക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്യപ്പെടുന്നു വളരെ ഗൌരവമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളുമായി മത്സരിക്കുന്ന ക്ലാസ് മുറിയിൽ നടക്കുന്ന ചർച്ച അവ പുറത്ത് കളിക്കുന്നു എന്നിട്ട് അത് നിങ്ങളുടെതാണെന്ന് കരുതുന്നതിനേക്കാൾ ഉച്ചത്തിലാണ് അദ്ധ്യാപകൻ താഴ്ന്ന സ്വരത്തിലാണ് സംസാരിക്കുന്നത് അതിനാൽ പുറത്ത് ശബ്ദമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള മത്സരം പിന്നെ ഉള്ളിലെ ഗൌരവമേറിയ സംസാരം ഒരുതരം ശാരീരിക തടസ്സമാണ് അതിനാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഒഴിവാക്കാൻ പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും മറികടക്കാൻ കഴിയും യഥാർത്ഥത്തിൽ വാതിലുകൾ അടയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്ന അധ്യാപകനോട് വളരെ അടുത്ത് ഇരിക്കാൻ ശ്രമിക്കുക അകത്തെ ചാറ്റുകൾ ഞാൻ അർത്ഥമാക്കുന്നത് രണ്ടും അകത്താണ് ക്ലാസ് റൂം അല്ലെങ്കിൽ ഓഡിറ്റോറിയം അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചർച്ച ചെയ്യുന്ന മുറി നിങ്ങൾ ഒരു ക്ലാസ് മുറിയിലാണെന്ന് കരുതുക നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം പക്ഷേ മറ്റുള്ളവയും ഉണ്ട് യഥാർത്ഥത്തിൽ ചാറ്റ് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നു തുടർന്ന് ആരെങ്കിലും നിങ്ങൾക്ക് വളരെ അടുത്ത് ഇരിക്കുന്നയാൾ മറ്റൊരാളുമായി എന്തെങ്കിലും പങ്കിടുകയാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് കഴിയും ടീച്ചർ നിങ്ങളോട് പറയുന്നതിനേക്കാൾ നന്നായി അത് കേൾക്കുന്നു അതിനാൽ ഇത് ഒരു പ്രശ്നവും മറ്റൊന്നുമാണ് അതിലൊന്നാണ് നിങ്ങളുടെ സ്വന്തം മനസ്സിൽ സംഭവിക്കുന്ന ഇൻസൈഡ് ചാറ്റ് നിങ്ങളുടെ പകൽ സ്വപ്നത്തിന് തുല്യമായ ഒരാളുമായി ഒരുതരം സംഭാഷണ ചർച്ച അതിനാൽ നിങ്ങൾ പൂർണ്ണമായും ട്രാക്കിൽ നിന്ന് പുറത്താണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ പിന്തുടരുന്നില്ല നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയുകയും തുടർന്ന് ആരോടെങ്കിലും സംസാരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതിനാൽ ക്ലാസ് അല്ലെങ്കിൽ പക്ഷേ വീണ്ടും മുറിയിലോ ഓഡിറ്റോറിയത്തിലോ ഉള്ള യഥാർത്ഥ ഭൌതിക തടസ്സങ്ങളിലേക്ക് മടങ്ങുന്നു മോശം ശബ്ദശാസ്ത്രം അതായത് മോശം ഓഡിയോ സിസ്റ്റം മോശം ശബ്ദ സംവിധാനവും പ്രശ്നം സൃഷ്ടിക്കും ഉദാഹരണത്തിന് അസുഖകരമായ അന്തരീക്ഷം നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയാത്തവിധം എസി വളരെ തണുപ്പാണ് ആ ദിവസം നിങ്ങൾക്ക് അൽപ്പം പനി അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ മുറി വളരെ ചൂടുള്ളതിനാൽ നിങ്ങൾ വിയർക്കുകയും ചെയ്യുന്നു അപ്പോൾ ഫാൻ പ്രവർത്തിക്കുന്നില്ല അവിടെ ഒരു പവർ കട്ട് ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് പുറത്തുപോകാൻ തോന്നുന്നു ഇടയ്ക്കിടെ മടങ്ങിവരുന്നു നിങ്ങൾ പുറത്തുപോയി മടങ്ങിയെത്തുന്ന സമയം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടപ്പെടും എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ വിതരണം ചെയ്യപ്പെട്ടത് പിന്തുടരാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്ന രീതിയെ ആശ്രയിച്ച് അസ്വസ്ഥമായ അന്തരീക്ഷവും ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു കസേരയിൽ കസേര തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ കസേര തന്നെ വളരെ സുഖകരമാണ് പിന്നെ നിങ്ങളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നു അതിനാൽ രണ്ട് കേസുകളിലും ഇത് ഒരു കേസായി മാറുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നു സജീവമായ ശ്രോതാവിന് ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ചില പിഴവുകൾ ഉണ്ടാകാം അതിനാൽ അവർ നിങ്ങളെ കടിക്കുന്നു അതിനാൽ അത് നിങ്ങൾക്ക് മറ്റൊരു അസുഖകരമായ സാഹചര്യമാണ് സന്ദേശം അമിതഭാരമുള്ളതിനാൽ സ്പീക്കർ നിങ്ങൾക്ക് വളരെയധികം വിവരങ്ങൾ നൽകുന്നു പിന്നെ ചിലപ്പോൾ ഈ പ്രഭാഷകനെ കേൾക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു മറ്റ് മൂന്ന് പ്രഭാഷകർ നൽകിയ മറ്റ് നിരവധി ഇൻപുട്ടുകൾ തുടർന്ന് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് എന്താണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില ദ്രുത വിശകലനം അതിനാൽ നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അതേ സമയം പ്രശ്നം സൃഷ്ടിക്കാനും കഴിയും എന്നാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ അവയാണ് ആളുകളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ വീണ്ടും ആളുകളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെക്കുറിച്ച് ശരീരത്തെ ബാധിക്കുന്ന ശാരീരിക തടസ്സങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം മനഃശാസ്ത്രപരമായവ ഫിസിയോളജിക്കൽ കാര്യങ്ങൾ അൽപ്പം പ്രശ്നകരമാണെന്ന് തോന്നുമെങ്കിലും എന്നാൽ ഒരാൾ അത്ര നിസ്സഹായനല്ല ഒരാൾക്ക് ഇപ്പോഴും മാനസികാവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയും ഫിസിയോളജിക്കലുകളേക്കാൾ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശാരീരിക അവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പനി അല്ലെങ്കിൽ തലവേദന പോലുള്ള ആരോഗ്യ അവസ്ഥകൾ നോക്കുക അല്ലെങ്കിൽ വയറുവേദന അതിനാൽ വയറുവേദനയുണ്ട് അതിനാൽ മൂന്ന് മണിക്കൂർ നീണ്ട സംസാരത്തിനായി നിങ്ങൾക്ക് വയറുവേദനയില്ല മുറിക്കുള്ളിൽ സ്വയം നിലനിർത്താൻ കഴിയുകയും നിങ്ങൾ പതിവായി ശുചിമുറിയിലേക്ക് പോകുകയും വേണം വീണ്ടും വരിക ഉയർന്ന പനി കാരണം നിങ്ങളുടെ മനസ്സിന് തന്നെ ബലഹീനത അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് കിടക്കാൻ തോന്നുന്നു ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്നത് കടുത്ത ചൂടും തണുപ്പും നിങ്ങളെ വീണ്ടും ബാധിക്കുന്നു സംസാരിക്കുന്നവർക്ക് സംസാരിക്കാനുള്ള പൊരുത്തമില്ലാത്ത രീതി ഉണ്ട് അതിനാൽ അവൻ എന്തെങ്കിലും പറയുന്നു തുടർന്ന് പെട്ടെന്ന് അവൻ എന്തിലേക്കോ ചാടുകയാണ് തുടർന്ന് ഒരു ക്രമവുമില്ല ഒരു യോജിപ്പുമില്ല അതിനാൽ നിങ്ങൾ പവർ പോയിന്റോ മറ്റോ ഇല്ലെന്ന് സ്പീക്കർ നിങ്ങളോട് പറയുന്നത് പിന്തുടരാൻ കഴിയുന്നില്ല സ്പീക്കർ നിങ്ങളോട് പറയുന്നത് പിന്തുടരാൻ നിങ്ങളെ സഹായിക്കുന്ന ഹാൻഡ്ഔട്ടുകളൊന്നുമില്ല അല്ലെങ്കിൽ ചില ആളുകൾ സംസാരിക്കുന്ന രീതി പോലും നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഉച്ചാരണത്തിലാണ് സംസാരിക്കുന്നത് ചിലർ ചിലപ്പോൾ സംസാരിക്കുന്നവർ സംസാരിക്കുന്ന ഒരു സാധാരണ അമേരിക്കൻ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അങ്ങനെയല്ല ഇത്തരത്തിലുള്ള ഉച്ചാരണം കേൾക്കാറുണ്ടായിരുന്നു അതിനാൽ അത് ഇംഗ്ലീഷാണെങ്കിലും നിങ്ങൾ കരുതുന്നു മറ്റൊന്നിനെ പിന്തുടരുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് തടസ്സങ്ങൾ മാനസികാവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാനസികാവസ്ഥകൾ കൂടുതലും നിങ്ങളുടെ മാനസികാവസ്ഥയെയും വികാരങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സ് തീരുമാനിക്കുന്നു അത് നിങ്ങളുടെ മനോഭാവമാണ് അതിനാൽ നിങ്ങൾ ആയിരിക്കുന്ന രീതിയെ നിയന്ത്രിക്കാൻ പോകുന്ന കാര്യങ്ങളാണിവ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ശ്രദ്ധ ആരെയെങ്കിലും കേൾക്കാൻ പോകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ആരെയെങ്കിലും വെറുക്കുന്നുവെങ്കിൽ നിങ്ങൾ പണം നൽകില്ല എന്നതിനാൽ പ്രഭാഷകനോടുള്ള വിദ്വേഷം വളരെയധികം ശ്രദ്ധിക്കുക അതിനാൽ നിങ്ങൾ വീണ്ടും ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കില്ല നിങ്ങൾ എല്ലാം 100 ശതമാനം ശരിയാണെന്ന് എടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും ഉണ്ടാക്കില്ല അതിനെക്കുറിച്ചുള്ള വിശകലനം അല്ലെങ്കിൽ വിമർശനാത്മക അഭിപ്രായം മുൻകൂട്ടി സങ്കൽപ്പിച്ച ആശയങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾക്ക് ഒരു നിശ്ചിത മനസ്സ് ഉണ്ടെങ്കിൽ വളർച്ചാ മനസ്സ് സജ്ജമാണെന്ന് പറയാം അതിനാൽ നിങ്ങൾ ചിന്തയുടെ കാഠിന്യം അനുഭവിക്കുന്നു തുടർന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിന് പുതിയ ആശയങ്ങൾ ലഭിക്കും ഇതിനടുത്താണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസാസോണൻസ് എന്ന് വിളിക്കുന്നത് കോഗ്നിറ്റീവ് ഡിസ്സോണൻസ് കോഗ്നിറ്റീവ് അസ്സോണൻസിന് വിപരീതമാണ് അതിനാൽ കോഗ്നിറ്റീവ് അസ്സോണൻസ് വിപരീതമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തമ്മിലുള്ള ഒരുതരം യോജിപ്പിനെ സൂചിപ്പിക്കുന്നു ആശയങ്ങൾ ആരുടെയെങ്കിലും സ്വന്തം കാഴ്ചപ്പാടുകളെ എതിർക്കുന്ന കോഗ്നിറ്റീവ് ഡിസാസോണൻസ് ആണ് അതിനാൽ നിങ്ങൾ എൻ്റെ സ്വന്തം വിശ്വാസത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചിന്താഗതി പ്രത്യേകിച്ച് എന്റെ മസ്തിഷ്കം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ച് വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കും അത് പോരാടാൻ ശ്രമിക്കും അത് എതിർക്കാൻ ശ്രമിക്കും അത് നിങ്ങളെ അപമാനിക്കാൻ പോലും ശ്രമിക്കും അപ്പോൾ അത് ചെയ്യും എല്ലാം അതിനാൽ ആ മനസ്സിന് സുഖം തോന്നുന്നു അത് തികച്ചും വ്യത്യസ്തമായി സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ് അതിനാൽ അത് കോഗ്നിറ്റീവ് ഡിസോണൻസ് ആണ് അതിനാൽ അത് വരേണ്യ ബുദ്ധിജീവികൾക്കിടയിൽ പോലും സംഭവിക്കുന്നു ഈ വസ്തുത കാരണം അവർ പോരാടുന്നത് തുടരുന്നു പക്ഷേ അതിനുപുറമെ അത് വ്യക്തിപരമായിരിക്കാം സമ്മർദ്ദ ഉത്കണ്ഠ അക്ഷമതാ അസഹിഷ്ണുത ഇവയിൽ ചിലത് നമുക്ക് വേഗത്തിൽ നോക്കാം തുടർന്ന് വിശദമായി ഒരു പ്രധാന തടസ്സം ആക്റ്റീവ് ലിസണിംഗ് എന്നത് അപര്യാപ്തമായ ഭാഷാ അടിത്തറയാണ് അതായത് സ്പീക്കർ ഒരുതരം ഉപയോഗിക്കുന്നു പദാവലി പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ചെയ്യാൻ കഴിയാത്ത സാങ്കേതിക പദാവലി മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ചിലർ നിങ്ങളായിരിക്കാം അതിനാൽ നിങ്ങൾ ഒരു ആകാൻ ആഗ്രഹിക്കുന്നു സജീവമായ ശ്രോതാവ് എന്നാൽ ഇത് കാരണം ആ വ്യക്തി എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയില്ല ഒരു വ്യക്തി ധാരാളം സാങ്കേതിക പദാവലികൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇത് ഭയവുമായി സംയോജിപ്പിക്കാം അല്ലെങ്കിൽ വ്യക്തത തേടാൻ ലജ്ജിക്കുന്നു നിങ്ങൾ എഴുന്നേറ്റ് മാന്യമായി പെരുമാറിയാൽ ഒരു പ്രശ്നവുമില്ല ചോദിച്ചുകൊണ്ട് തടസ്സപ്പെടുത്തുക ഈ വാക്ക് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുമോ അതോ എന്നോട് പറയാമോ ചില ആളുകൾ നിങ്ങളെ കളിയാക്കുമെന്ന് ഭയപ്പെടാതെ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് വ്യക്തത തേടാൻ കഴിയുമെങ്കിൽ അത് ഒരു ആശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങാൻ നിങ്ങളെ സഹായിക്കും മറ്റൊരാൾ ആ വ്യക്തിയെ പിന്തുടരുക എന്നാൽ അപര്യാപ്തമായ ഭാഷാ അടിത്തറ ശരിയാക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്വന്തം ഭാഷാ വൈദഗ്ദ്ധ്യം മെച്ചപ്പെടുത്തുന്നത് ഭാഗികമായി കേൾക്കുന്നത് മിക്കവാറും ഇല്ലാത്തതിന് തുല്യമാണ് കേൾക്കുന്ന ആളുകൾ പലപ്പോഴും കാരണം പൂർണ്ണമായും കേൾക്കുന്നില്ല കാരണം അവർ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നു ഫോണിലൂടെ സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും വായിക്കുമ്പോഴോ കമ്പ്യൂട്ടറിലെ വസ്തുക്കൾ ഒരു സംഭാഷണത്തിനിടയിൽ സംസാരിക്കുകയോ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ സംസാരത്തിനിടയിൽ വാക്കേതരമായി സംസാരിക്കുക പോലും ചെയ്യുക ആരോടെങ്കിലും ആശയവിനിമയം നടത്തുക ആരോ ഭക്ഷണം വിളമ്പുന്നു അതിനാൽ നിങ്ങൾ പോകൂ എന്ന് മാത്രമാണ് പറയുന്നത് നിങ്ങൾ ഇത് സൂക്ഷിക്കുന്നു നിങ്ങൾ ഇത് എടുത്തുകളയുന്നു അതിനാൽ നിങ്ങൾ ആംഗ്യം കാണിക്കുന്നു എന്നാൽ അതേ സമയം നിങ്ങൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു അതിനാൽ ഇത് ഭാഗികമായി കേൾക്കുന്നതിനും ആരോ നൽകുന്നതിനും തുല്യമാണ് ഒരു ഫോൺ നമ്പറിനെക്കുറിച്ചോ വിലാസത്തെക്കുറിച്ചോ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തുടർന്ന് നിങ്ങൾ പൂർണ്ണമായും ഇത് മറക്കുക വരും ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പറയാം പ്രത്യേകിച്ച് ടെലിഫോൺ കഴിവുകളെക്കുറിച്ചും മൊബൈൽ കഴിവുകളെക്കുറിച്ചും പ്രഭാഷണം നടത്തുക എന്നാൽ ഇപ്പോൾ നിങ്ങൾ അത് ഭാഗികമായ ശ്രവണത്തിന് തുല്യമാണെന്ന് മനസ്സിലാക്കുക അടുത്ത തടസ്സം നിസ്സംഗതയായിരിക്കാം അത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ സ്വന്തം താൽപ്പര്യക്കുറവാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ക്ലാസ് മുറികളിലോ പ്രഭാഷണങ്ങളിലോ സെമിനാറുകളിലോ നിങ്ങൾ സ്വയമേവ പണം നൽകും അതിൽ ശ്രദ്ധിക്കുക പക്ഷേ നിങ്ങൾക്ക് വിഷയത്തിൽ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത് പറഞ്ഞുകൊണ്ടിരിക്കും ഓ ഇത് ബോറടിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നു ഇത് എനിക്ക് രസകരമല്ല അതിനാൽ ഞാൻ ഇത് ഉപേക്ഷിക്കട്ടെ അതിനാൽ യാന്ത്രികമായി നിങ്ങളുടെ മനസ്സ് ഒരുതരം വൈരുദ്ധ്യം സൃഷ്ടിക്കാൻ തുടങ്ങും നിങ്ങൾക്കും പ്രഭാഷകനും ഇടയിൽ നിങ്ങൾ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കും വിദ്യാർത്ഥികളേ പ്രത്യേകിച്ച് നിങ്ങൾ അവരെ ഒരു ക്രിക്കറ്റ് മത്സരം കാണാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ തുടർന്ന് നിങ്ങളും അതിന്റെ അവസാനം നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വിദ്യാഭ്യാസ വീഡിയോ അവരെ കാണിക്കുക വീഡിയോ പലർക്കും വളരെ നിസ്സാരമായ ലളിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്നാൽ അതേ സമയം നിങ്ങൾ ചോദിക്കുമ്പോൾ 10 ദിവസമോ 20 ദിവസമോ കഴിഞ്ഞിട്ടും അവർക്ക് ക്രിക്കറ്റ് സ്കോർ ഓർമ്മിക്കാൻ കഴിയും അവരുടെ പ്രിയപ്പെട്ട പാട്ടുകളുടെ കാര്യത്തിലും ഇത് ബാധകമാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ നടി സിനിമ എന്നിവയെക്കുറിച്ച് അവർ കേട്ട പ്രിയപ്പെട്ട ഗാനങ്ങൾ സംവിധായകൻ അതിനാൽ ഇവ വളരെ രസകരമായ കാര്യങ്ങളാണ് അതിനാൽ അവർ ആവേശത്തോടെ കേൾക്കുകയും തുടർന്ന് അവർ ഒരു നിസ്സാരകാര്യങ്ങൾ പോലും ഓർമ്മിക്കുകയും ചെയ്യുന്നു അതേസമയം വിദ്യാഭ്യാസ വീഡിയോകളുടെ കാര്യത്തിൽ അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല അതിനാൽ ഇത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ തടസ്സം നീക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ താൽപര്യം സൃഷ്ടിക്കുക നമ്മിൽ മിക്കവർക്കും ഉള്ളതും സജീവമായ ശ്രവണത്തിന് തടസ്സമായി പ്രവർത്തിക്കുന്നതുമായ മറ്റൊരു പൊതുവായ കാര്യം പ്രസംഗത്തിന് മുമ്പുതന്നെ സ്പീക്കറെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ മുൻവിധിയാണ് ഇപ്പോൾ ഭൂരിഭാഗവും ചിലപ്പോഴൊക്കെ നാം അറിയാതെ പ്രസംഗകന്റെ വാക്കുകൾ നോക്കുന്നതിലൂടെ പ്രസംഗത്തെക്കുറിച്ച് നിഗമനത്തിലെത്തുന്നു വസ്ത്രധാരണ ഭാവം മുതലായവ താടിയുള്ള ഒരു യാചകനെപ്പോലെ കാണപ്പെടുന്ന ഒരാൾ പിന്നെ വളരെ ജീർണിച്ച ഷർട്ട് പിന്നെ ആളുകൾ അവനെ അകത്തേക്ക് പ്രവേശിക്കാൻ പോലും അനുവദിച്ചില്ല ഓഡിറ്റോറിയം ഏറ്റവും പ്രശസ്തനും പ്രശസ്തനുമായ പ്രഭാഷകനായി പേര് പ്രഖ്യാപിച്ചപ്പോൾ വളരെ ആസന്നമായ ഒരു സമ്മാന ജേതാവ് പോലും അദ്ദേഹം പതുക്കെ വേദിയിലേക്ക് നടന്നു തുടർന്ന് അദ്ദേഹം ഡെലിവറി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ കയ്യടി ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു മികച്ച പ്രഭാഷകനായിരുന്നു പക്ഷേ പിന്നീട് പ്രത്യക്ഷത്തിൽ പലരും നിഗമനം ചെയ്തുഃ അവൻ ശരിക്കും അത്ര നല്ലവനല്ല ചില സ്ത്രീകളെപ്പോലെ ആളുകൾ പ്രഭാഷകനെ ലിംഗഭേദം അനുസരിച്ച് മുൻകൂട്ടി വിലയിരുത്തുന്നു സംസാരിക്കുന്നവർ തിരിച്ചും ചില ആൺകുട്ടികൾ പുരുഷ അധ്യാപകരെ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് സ്ത്രീകൾ മാത്രമേ ഇഷ്ടമുള്ളൂ അധ്യാപകർ അല്ലെങ്കിൽ തിരിച്ചും ചില ആളുകൾ വെളുത്ത നിറമുള്ള ആളുകളെ മാത്രം ഇഷ്ടപ്പെടുന്നു ചിലർക്ക് തവിട്ട് നിറവും ചിലർക്ക് കറുപ്പ് നിറവും ചിലർക്ക് മഞ്ഞ നിറവും അതിനാൽ മുൻഗണനകളെക്കുറിച്ച് അവർ സ്പീക്കറെ മുൻകൂട്ടി വിലയിരുത്തുന്നു അവർക്ക് ഇതിൽ ഒരു അഭിപ്രായമുണ്ടാകും ഈ വ്യക്തിക്ക് നന്നായി സംസാരിക്കാൻ കഴിയില്ല സ്റ്റാറ്റസും സ്റ്റീരിയോടൈപ്പുകളും വിമർശനാത്മക ചിന്തയുടെ നിലയെ ബാധിക്കുന്നു ഉദാഹരണത്തിന് ആരെങ്കിലും അഭിമാനകരമായ ഒരു അവാർഡ് നേടി അതിനാൽ അവൻ അല്ലെങ്കിൽ അവൾ വളരെ നല്ല ആളായിരിക്കണമെന്ന് നിങ്ങൾ ഉടൻ കരുതുന്നു അതിനാൽ നിങ്ങൾ ഉടൻ തന്നെ നിഗമനത്തിലെത്തുന്നു ആ വ്യക്തി ശരിക്കും അത്ര നല്ലവനല്ലായിരിക്കാം മറ്റൊന്ന് സാധ്യമാണ് കാരണം ആരെങ്കിലും മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയിട്ടില്ല ആ അധ്യാപകൻ ശരിക്കും നല്ലവനല്ലെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അതിനാൽ അതും ശരിയായിരിക്കില്ല അതിനാൽ അത് സ്പീക്കറെയും പ്രസംഗത്തെയും മുൻകൂട്ടി വിലയിരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് പ്രഭാഷകനോട് നിഷേധാത്മകത വളർത്തിയെടുക്കുക നല്ല പോസിറ്റിവിറ്റി തോന്നുന്ന രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ആരെയെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്പീക്കർക്ക് സ്പീക്കറെക്കുറിച്ച് മോശമായി തോന്നുന്നു കാരണം നിങ്ങൾ പ്രസംഗകനെ വെറുക്കുക രണ്ടും നമ്മെ ബാധിക്കുന്ന വളരെ മോശം വൈകാരിക തടസ്സങ്ങളാണ് സജീവമായ ശ്രവണത്തിന് ഭയങ്കരമായ തടസ്സങ്ങൾ പക്ഷേ പോസിറ്റീവ് കാര്യങ്ങളുടെ കാര്യത്തിലെങ്കിലും നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്പീക്കറെ ഇഷ്ടപ്പെടും നിങ്ങളുടെ വിമർശനാത്മക ചിന്തകൾ മാത്രം കുറഞ്ഞതായിരിക്കണം പക്ഷേ സ്പീക്കറോട് എതിർപ്പ് കാണിക്കുന്നതിൻറെ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായും നഷ്ടത്തിൽ അതിനാൽ ക്ലാസ്റൂം സാഹചര്യങ്ങളിൽ ഇത് വീണ്ടും വളരെ പ്രധാനമാണ് ഗുരുവിനെ വെറുക്കുന്നു അതിനാൽ നിങ്ങൾ അധ്യാപകനെ വെറുക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഏത് കാരണത്താലും അത് നിങ്ങളുടെ മുൻവിധികളോ തെറ്റായ ധാരണയോ ആയിരിക്കാം അധ്യാപകനെക്കുറിച്ച് എന്നാൽ ആ നിഷേധാത്മകത വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചാണ് അതിനാൽ അത് നിങ്ങളെ കുറച്ചുകാണിക്കും സ്പീക്കർ കഴിവുകൾ തുടർന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ചോദിച്ചുകൊണ്ട് ശത്രുത കാണിക്കും പ്രശ്നകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയോ തെറ്റായ ചോദ്യങ്ങൾ നൽകുന്നതിലൂടെയോ അപ്രസക്തമായ ചോദ്യങ്ങൾ ഉത്തരം നൽകുകയും തുടർന്ന് സ്പീക്കർ നിങ്ങളോട് എന്തെങ്കിലും ശരിയായ കാര്യം പറയുമ്പോഴും നിങ്ങൾ വിയോജിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ അംഗീകരിക്കാത്ത സ്പീക്കർ വ്യൂ പോയിന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ അനന്തമായും മൊത്തത്തിലും ചർച്ച ചെയ്യുന്നു നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളോട് ശരിയായി പറഞ്ഞതെന്തും വികലമായ സന്ദേശം സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ അവസാനിക്കുന്നു അത് തെറ്റായി ഫിൽറ്റർ ചെയ്യുകയും തുടർന്ന് നിങ്ങളുടെ മനസ്സിൽ വളരെ വികലമായ ഒരു സന്ദേശം സൂക്ഷിക്കുകയും ചെയ്യുക അതിനാൽ ഈ നിഷേധാത്മകതയാണ് നിങ്ങൾക്ക് നിഷേധാത്മകമായി തോന്നുന്ന ഏറ്റവും മോശം കാര്യം എന്ന് ഞാൻ പറയും ആശയവിനിമയത്തിൽ ആരെങ്കിലും അതിനാൽ ആശയവിനിമയ സാഹചര്യം പോലും നിങ്ങൾ ഒഴിവാക്കണം കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നേട്ടവും ലഭിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മനസ്സ് മാറ്റുക നിങ്ങളുടെ മനസ്സ് മാറ്റുക നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും നന്നായി ചിന്തിക്കുക വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് കുറഞ്ഞത് വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് ആ വ്യക്തി എന്ത് നല്ല കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കും പിന്നീട് നിങ്ങൾക്കും ആ വ്യക്തിയെ ഇഷ്ടപ്പെടും പക്ഷേ ഒടുവിൽ നിങ്ങൾ എതിർപ്പോടെ ആരംഭിക്കുകയാണെങ്കിൽ വ്യക്തിയുടെ അടുത്തേക്ക് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ താൽപര്യം വളർത്തുകയില്ല അത് യഥാർത്ഥത്തിൽ നിങ്ങളെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഇപ്പോൾ അടുത്ത പോയിന്റ് വീണ്ടും ഒരാളുടെ സ്വന്തം മാനസിക ബലഹീനതയിൽ നിന്നാണ് വരുന്നത് ഭിന്നത എന്ന ബലഹീനത പൂർണ്ണമായും ആത്മവിശ്വാസക്കുറവാണ് അതിനാൽ പ്രത്യേകിച്ച് ചില വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചില മുതിർന്നവർ പോലും പരാജയ മനോഭാവം അനുഭവിക്കുന്നു അതിനാൽ എഴുതുന്ന മിക്ക ആളുകളും സോഫ്റ്റ് സ്കിൽസ് വ്യക്തിത്വ വികസനം എന്നിവയെക്കുറിച്ച് ഈ കോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുക അവർ അല്ലെങ്കിൽ ആശയവിനിമയ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള കോഴ്സിനെക്കുറിച്ച് പോലും അവർ വന്ന് എന്നോട് പറയുക ഹിന്ദി മീഡിയം ഞാൻ ഗുജറാത്തി മീഡിയത്തിൽ നിന്നാണ് ഞാൻ മറാത്തി മീഡിയത്തിൽ നിന്നാണ് ഞാൻ തെലുങ്കിൽ നിന്നാണ് അവർ ഇംഗ്ലീഷ് വായിക്കാത്ത എല്ലാത്തരം മാധ്യമങ്ങളും എങ്ങനെ കഴിയും എന്ന് അവർ പറയുന്നു ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നു ഞാൻ അവരോട് പറയുന്നു നിങ്ങൾക്ക് ഈ ലളിതമായ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പിന്തുടരാൻ കഴിയുമെങ്കിലും ചില ആളുകൾ ഒരുതരം പരാജയ മനോഭാവം വികസിപ്പിക്കുന്നു ആ മനുഷ്യൻ ഹിന്ദി മാധ്യമത്തിൽ നിന്നുള്ളയാളല്ല പക്ഷേ അവൻ എന്നെക്കാൾ മിടുക്കനാണെന്ന് അവൾ കരുതുന്നു തെലുങ്ക് മീഡിയം പക്ഷേ അവൾക്ക് അത് എന്നെക്കാൾ നന്നായി മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഞാൻ ഒരു ദുർബലനാണ് ഞാൻ ഒരു ദരിദ്രനാണ് അതിനാൽ അങ്ങനെ വ്യക്തി സ്വയം കഴിവുകളെ ദുർബലപ്പെടുത്തുന്നു വിഷയം പൂർണ്ണമായും മനസ്സിലാക്കുന്നതിനും അത് വീണ്ടും വിദ്യാർത്ഥികൾക്ക് ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നതിനും പ്രത്യേകിച്ചും ഈ വ്യത്യാസം ഉള്ളവർ സാധാരണയായി അവർ അടയ്ക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അവരുടെ ഉള്ളിലെ മനസ്സ് തുറക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല കൂടാതെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരും ഈ ഭിന്നത അനുഭവിക്കുന്നതായി നിങ്ങൾ കാണുന്നു അമിതമായ ഉത്സാഹവും അസഹിഷ്ണുതയും ഉണ്ടായാൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം ഒന്നുകിൽ സംസാരിക്കുന്നയാളിലോ അല്ലെങ്കിൽ ആ വ്യക്തിയിലോ വളരെയധികം താൽപ്പര്യമുള്ള വ്യക്തിയാണ് ആവേശം വരുന്നത് നിങ്ങൾ അമിതമായി ആവേശഭരിതരാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നതിൽ അക്ഷമരാകുകയും നിങ്ങൾ അക്ഷമരാകുകയും ചെയ്യുന്നു സ്പീക്കർ ആശയങ്ങളിലെ വിടവുകൾ നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ ശൂന്യസ്ഥാനങ്ങൾ നിറയ്ക്കുന്നതുപോലെയാണ് സ്പീക്കർ ഉടൻ തന്നെ നിങ്ങൾ ചാടുന്ന എന്തോ ചിന്തിക്കുന്നു ചില സ്പീക്കറുകൾ മന്ദഗതിയിലാണെന്ന് നിഗമനം ചെയ്യുന്നു അവലോകനങ്ങളിൽ നിന്ന് പുറത്തുവരാൻ പക്ഷേ നിങ്ങൾ അവരെ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ ചാടുകയും തുടർന്ന് നിങ്ങൾ പൂർത്തിയായി അതിനാൽ നിങ്ങളുടെ അസഹിഷ്ണുതയുടെ അളവ് വളരെ കുറവാണ് ആളുകൾ വളരെ അസഹിഷ്ണുതയുള്ളവരാണ് തുടർന്ന് അവർ ശ്രമിക്കുന്ന സംസാരത്തിന്റെ അവസാനം വരെ അവർ കാത്തിരിക്കില്ല പ്രസംഗം അവസാനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ അവരുടെ ചോദ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ അവർ ഇടപെടുന്നത് തുടരുന്നു വേഗം അതിനാൽ ഇത് ചിലപ്പോൾ സ്പീക്കറിന്റെ ഒഴുക്ക് വെട്ടിക്കുറയ്ക്കുകയും അത് ഭയപ്പെടുത്തുകയും ചെയ്യും പ്രഭാഷകനും പ്രഭാഷകനും ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പൂർണ്ണമായും അസ്വസ്ഥത അനുഭവപ്പെടും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുകയാണെങ്കിൽപ്പോലും അത് ഒരു സജീവ ശ്രോതാവായി മാറുന്നു വളരെ ശാന്തവും ആശ്വാസകരവുമായ മൌനം പാലിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ മറ്റേ വ്യക്തിക്ക് സുഖം തോന്നണം അതിനാൽ മുഴുവൻ പ്രക്രിയയിലും നിങ്ങൾ ആയിരിക്കുമ്പോൾ അമിതമായ ഉത്സാഹവും അസഹിഷ്ണുതയും കാരണം നിങ്ങളുടെ ആശയവിനിമയ പ്രക്രിയ അവസാനിപ്പിക്കാൻ നിങ്ങൾ ഉത്കണ്ഠാകുലരാണ് മറ്റേയാൾ സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല സംസാരം തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിങ്ങൾ നിർത്തുക അതിനാൽ സജീവമായി കേൾക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന തടസ്സമാണിത് നമുക്ക് ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കേട്ട കഥകളിൽ നിന്ന് നമ്മുടെ സ്വന്തം വായനകളിൽ നിന്ന് സംസ്കാരത്തിൽ നിന്ന് നമുക്ക് നൽകി എന്നാൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ചില വിശ്വാസങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ചിലപ്പോൾ അടഞ്ഞ മനസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളും ദൃഢവിശ്വാസങ്ങളും മൂലമാണ് ഇത് രൂപപ്പെട്ടത് ഇപ്പോൾ ഇത് ഒരു മതത്തിൽ നിന്നുള്ള ഒരാളെ ഉപരിപ്ലവമായി കേൾക്കുന്നതിലേക്ക് നയിച്ചേക്കാം എനിക്ക് വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നില്ല അതിനാൽ ഞാൻ വ്യക്തിയെ വളരെ ഉപരിപ്ലവമായ രീതിയിൽ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് പലപ്പോഴും വിയോജിപ്പിന് കാരണമാകും സംസാരിക്കുന്നവരുടെ നിലപാടും കാഴ്ചപ്പാടും മതമായിരിക്കണമെന്നില്ല അത് ഏതെങ്കിലും വിധത്തിൽ ആയിരിക്കാം പ്രത്യയശാസ്ത്രങ്ങൾക്കിടയിൽ ഒരു പ്രത്യയശാസ്ത്രവും മറ്റൊരു പ്രത്യയശാസ്ത്രവും കണക്കിലെടുക്കുമ്പോൾ ഒരാളുടെ സ്വന്തം വിശ്വാസങ്ങളുടെ കൂട്ടം സംസ്കാരം എന്നത് മറ്റൊരാളുടെ വിശ്വാസങ്ങൾ ധരിക്കുന്ന രീതിയാണ് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഒരു ഏറ്റുമുട്ടലിലേക്ക് വരാം അത് പോസിറ്റീവ് പക്ഷപാതത്തിനും സ്വാധീനത്തിനും കാരണമാകും വിധിക്കാനുള്ള ഒരാളുടെ കഴിവ് അതിനാൽ നിങ്ങളുടെ സ്വന്തം ആഴത്തിലുള്ള വിശ്വാസങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഒരു വ്യക്തിയോട് പൂർണ്ണമായും അന്ധനാകുകയും തുടർന്ന് നിങ്ങൾ കരുതുന്ന അനുകൂലമായ ഒരു പക്ഷപാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു വ്യക്തിയെക്കുറിച്ച് നല്ലത് ആ വ്യക്തി അൽപ്പം തെറ്റാണെങ്കിൽപ്പോലും അത് നിങ്ങളെ സ്വാധീനിക്കും വിധിക്കാനുള്ള കഴിവ് അതിനാൽ ഇത് സജീവമാകുന്നതിന് ഒരു തടസ്സമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് ശ്രദ്ധിക്കുകയും നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിക്കുകയും വേണം അതിനാൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു നൽകട്ടെ പോസിറ്റീവ് പക്ഷപാതവും സ്വാധീനവും നിങ്ങൾ എങ്ങനെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചുള്ള ഉദാഹരണം കേൾക്കുക ഈ സന്ദേശത്തിലേക്ക് പോകുകയും തുടർന്ന് നിങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ സന്ദേശം നൽകുന്ന രീതി അതിനാൽ നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ഇത് എങ്ങനെ വിലയിരുത്താൻ കഴിയും എന്ന് ഞാൻ ഇത് വായിക്കാൻ പോകുന്നു അതിനാൽ അത് നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുകയും തുടർന്ന് ആരാണെന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ആശയം വികസിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ നേതാവായ ഈ വ്യക്തിയാണ് ഇതിന് പിന്നിൽ ഞങ്ങളുടെ നേതാവിന് അസന്തുഷ്ടമായ കുട്ടിക്കാലവും ഔപചാരിക വിദ്യാഭ്യാസം കുറവുമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് സ്വയം വിദ്യാഭ്യാസത്തിലൂടെ ഒരു കലാകാരനാകാനുള്ള അദ്ദേഹത്തിൻറെ അഭിലാഷത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു ദേശീയതലത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമായി മാറിയ ഒരു പുസ്തകത്തിന്റെ രചയിതാവ് എപ്പോഴാണെന്ന് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തരുത് മറ്റുള്ളവർ പറയുന്നത് അത് അസാധ്യമാണെന്ന് അദ്ദേഹം ഓരോ തടസ്സത്തെയും തടസ്സപ്പെടുത്തുന്നു അത് വരുമ്പോൾ അദ്ദേഹം സജീവമായ ഒരു തടസ്സം നിർമ്മിച്ചു തിരഞ്ഞെടുത്ത യുവാക്കളുടെ യുവ പ്രസ്ഥാനം അദ്ദേഹം തന്റെ ചലനാത്മകതയ്ക്ക് ലോകമെമ്പാടും അറിയപ്പെടുന്നു പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻറെ ഏറ്റവും അടുത്ത കൂട്ടാളികൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം അവിശ്വസനീയമായ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണ് അവൻ ഇപ്പോൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതിനായി അവന്റെ ഇച്ഛാശക്തിയുടെ അഭിനിവേശം ഇത്രയും വിലമതിക്കപ്പെടുന്നതും ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് അത്ര സ്നേഹത്തോടെ പറയപ്പെടുന്നതുമായ ഈ നേതാവാണോ അഡോൾഫ് ഹിറ്റ്ലർ ഒഴികെ അതിനാൽ വളരെ പ്രശംസാപരമായി എഴുതിയത് രീതി അഡോൾഫ് ഹിറ്റ്ലറുടെ വളരെ പ്രശസ്തനായ ഒരു അനുയായിയാണ് പക്ഷേ അത് പറയാൻ ഒരു ഉദാഹരണം മാത്രമാണ് എന്തെങ്കിലും വിവരിക്കുന്ന രീതി ഒരു രൂപീകരണം സുഗമമാക്കുകയും ചെയ്യും നിങ്ങളിൽ പോസിറ്റീവ് പക്ഷപാതം അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം അങ്ങനെ കേൾക്കുന്നതിനുള്ള തടസ്സം മൊത്തത്തിൽ രൂപപ്പെടുത്തിയിട്ടില്ല ഞാൻ കൈകാര്യം ചെയ്ത ആശയവിനിമയത്തിന്റെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു കേൾക്കുന്നതിന്റെ പ്രാധാന്യവും തുടർന്ന് സജീവമായ ശ്രവണവും തുടർന്ന് കേൾക്കുന്നതിനുള്ള തടസ്സങ്ങളും അടുത്തതിൽ ഞാൻ ടെലിഫോൺ കഴിവുകളുമായി ബന്ധപ്പെട്ട വശങ്ങൾ തുടരാൻ പോകുന്നു തുടർന്ന് കേൾക്കുന്നതിനും സംസാരിക്കുന്നതിനും അടുത്തുള്ള മൊബൈൽ കഴിവുകൾ അതിനാൽ ഞാൻ വിട പറയുന്നതിന് മുമ്പ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഈ ഉദ്ധരണിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പറയുന്നത് കേൾക്കാൻ മറ്റുള്ളവർ നിങ്ങളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുക അങ്ങനെ കേൾക്കുക മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതി മറ്റുള്ളവർ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കേൾക്കുക ഈ വീഡിയോ കേട്ടതിന് നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു